മുൻ പ്രഭാഷണത്തിൽ വ്യാവസായിക പ്രക്രിയകളുടെ ഒരു ഭാഗത്ത് വ്യാവസായിക പ്രക്രിയകളുടെ വ്യത്യസ്ത പ്രവർത്തന വശങ്ങളിലൂടെ സ്മാർട്ട് ഫാക്ടറികളുടെ വ്യത്യസ്ത ആട്രിബ്യൂട്ടുകളിലൂടെ പ്രത്യേകിച്ച് ഒരു പ്രക്രിയയുടെ വീക്ഷണകോണിലൂടെ ഞങ്ങൾ കടന്നുപോയി ഈ പ്രഭാഷണത്തിൽ വ്യാവസായിക പ്രക്രിയകളിൽ വ്യാവസായിക IoT നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ അതിനാൽ എല്ലാ വ്യത്യസ്ത കമ്പനികളും അവരുടെ വ്യത്യസ്ത ഉൽപാദന പ്രക്രിയകളുടെ നിർമ്മാണ പ്രക്രിയകളിൽ ഇതിനകം തന്നെ വ്യാവസായിക IoT നടപ്പിലാക്കിയിട്ടുള്ള ബ്രീഫ് കേസ് പഠനങ്ങൾ ഞങ്ങൾ ചില ഉദാഹരണങ്ങളിലൂടെ കടന്നുപോകും അത് വളരെ ഉയർന്ന തലത്തിലായിരിക്കും ഓരോ വ്യവസായത്തിനും വ്യത്യസ്ത നിർവ്വഹണങ്ങളും വിന്യാസങ്ങളും എങ്ങനെ ചെയ്തു എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുണ്ട് അതിനാൽ ഏതൊക്കെ കമ്പനികളും ഏതൊക്കെ കമ്പനികളും IIoT സ്വീകരിച്ചുവെന്ന് വളരെ ഉയർന്ന തലത്തിൽ മനസിലാക്കാൻ ഞങ്ങൾ ഈ സ്നാപ്പ്ഷോട്ടുകളിൽ ചിലത് പരിശോധിക്കും അതിനാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഉയർന്ന തലത്തിലുള്ള ധാരണ ലഭിക്കാൻ പോകുന്നു അതിനാൽ നമ്മൾ ഇൻഡസ്ട്രി 4 0 നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് വ്യത്യസ്ത മേഖലകളുണ്ട് അത് പരിഗണിക്കേണ്ടതുണ്ട് സ്മാർട്ട് റോബോട്ടിക്സ് വളരെ പ്രധാനമാണ് IIoT യുടെ പശ്ചാത്തലത്തിൽ പൊതു റോബോട്ടിക്സിലെ വ്യവസായങ്ങൾ വളരെ പ്രധാനമാണ് യന്ത്രസാമഗ്രികൾ റോബോട്ടിക് സജ്ജീകരിച്ചിരിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഈ യന്ത്രങ്ങൾ സ്വയംഭരണാധികാരത്തോടെ പ്രവർത്തിക്കുന്നു മിക്ക കേസുകളിലും മനുഷ്യ ഇടപെടൽ ഇല്ല മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടായാലും അത് വളരെ കുറവാണ് അതിനാൽ സ്മാർട്ട് റോബോട്ടിക്സ് വ്യാപകമായി വിന്യസിക്കുകയും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തേത് ഭാവിയുടെ ഫാക്ടറി ഇന്റലിജന്റ് മാനുഫാക്ചറിംഗ് സ്മാർട്ട് വെയർഹൌസിംഗ് എയർ ആസ് എ സർവീസ് എയർ ആസ് എ സർവീസ് എന്നത് ഈ വ്യവസായങ്ങളിലൊന്ന് സൃഷ്ടിച്ച ഒരു പദമാണ് ഞങ്ങൾ ഉടൻ കടന്നുപോകും അതിനാൽ ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ സംസാരിക്കുന്നത് എയർ കംപ്രസ്സറിനെ സ്മാർട്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഒരു എയർ കംപ്രസ്സറിനെ സ്മാർട്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇത് കൂടുതൽ വിശദമായി പരിശോധിക്കും മെച്ചപ്പെട്ട മൈനിംഗ് സ്മാർട്ട് ലോജിസ്റ്റിക്സ് ട്രാക്കിംഗ് ആൻഡ് ട്രെയ്സിംഗ് അതിനാൽ ഈ വ്യത്യസ്ത മേഖലകളിലെല്ലാം IIoT ഇതിനകം തന്നെ ഉപയോഗിക്കുകയും അവരുടെ യന്ത്രസാമഗ്രികൾ ഈ വ്യവസായങ്ങളിലെ മറ്റ് വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നടത്തുകയും ചെയ്യുന്ന അവരുടെ വ്യത്യസ്ത പ്രക്രിയകൾ IoT സംയോജിപ്പിച്ചതിന്റെ സഹായത്തോടെ ഇവ മികച്ചതാക്കി അതിനാൽ ഈ കമ്പനി ICP DAS ഉണ്ട് അവർ ചെയ്തത് അവർക്ക് വ്യത്യസ്ത മേഖലകളുണ്ട് എന്നതാണ് അതിനാൽ അവർക്ക് ഊർജ്ജ മേഖല M2M നിർമ്മാണ മേഖല സുരക്ഷ എന്നിവയുണ്ട് ഈ വ്യത്യസ്ത മേഖലകളിൽ ഓരോന്നിലും അവർ ഇൻഡസ്ട്രി 4 0 സംയോജിപ്പിച്ചിരിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഊർജ്ജ മേഖലയിൽ അവർ ഊർജ്ജ മാനേജ്മെന്റ് മലിനീകരണ നിരീക്ഷണം പരിസ്ഥിതി നിരീക്ഷണം സ്മാർട്ട് ഹോം സ്മാർട്ട് ഓഫീസ് സജ്ജീകരണം എന്നിവയ്ക്കായുള്ള വ്യാവസായിക IoT പരിഹാരങ്ങൾ സംയോജിപ്പിച്ചിരിക്കുന്നു M2M ന്റെ പശ്ചാത്തലത്തിൽ സപ്ലൈ ചെയിൻ ഓട്ടോമേഷൻ ലോജിസ്റ്റിക്സ് മോഷൻ കൺട്രോൾ സ്റ്റോറേജ് പാർക്കിംഗ് നിർമ്മാണം മെഷീൻ ഇന്റർനെറ്റ് വർക്കിംഗ് സിസ്റ്റം ഹെൽത്ത് ഡയഗ്നോസ്റ്റിക്സ് സിസ്റ്റം ഹെൽത്ത് മോണിറ്ററിംഗ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി റിമോട്ട് മാനേജ്മെന്റ് തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ പ്ലാന്റ് സുരക്ഷ നിരീക്ഷണം വിവര സുരക്ഷ പരിസ്ഥിതി സുരക്ഷ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഈ കമ്പനി ICP DAS IoT സൊല്യൂഷനുകൾ സംയോജിപ്പിച്ച് വ്യവസായം 4 0 ന് അനുസൃതമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന വ്യത്യസ്ത ഡൊമെയ്നുകൾ മേഖലകൾ ഇവയാണ് കമ്പനി കാറ്റർപില്ലർ നിങ്ങളിൽ മിക്കവർക്കും ഈ കമ്പനി കാറ്റർപില്ലറിനെ ഇതിനകം പരിചിതമാണെന്ന് ഞാൻ കരുതുന്നു ഇത് ഹെവി മെഷിനറി ഡൊമെയ്നിലാണ് ഹെവി മെഷിനറി ഡൊമെയ്നിൽ ഈ കമ്പനിക്ക് വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുണ്ട് അതിനാൽ കാറ്റർപില്ലർ അടിസ്ഥാനപരമായി IoT നടപ്പിലാക്കുകയും റിയാലിറ്റി സൊല്യൂഷനുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് അടിസ്ഥാനപരമായി വ്യവസായ 4 0 യിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് അതിനാൽ അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് IoT ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നിവയുടെ ഉപയോഗത്തിലൂടെയാണ് തത്സമയ മെഷീൻ നിലയെക്കുറിച്ചും അവരുടെ പക്കലുള്ള വ്യത്യസ്ത മെഷീനുകളുടെ മെഷീനുകളുടെ അവസ്ഥയെക്കുറിച്ചും ഒരു മികച്ച വീക്ഷണം നേടാൻ ഒരാൾക്ക് കഴിയും അതിനാൽ അടിസ്ഥാനപരമായി അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ യന്ത്രങ്ങളെ മികച്ചതാക്കി അതിനാൽ തത്സമയ മെഷീൻ സ്റ്റാറ്റസ് മോണിറ്ററിംഗ് ചെയ്യാനും അവരുടെ അവസ്ഥകൾ നിരീക്ഷിക്കാനും അങ്ങനെ ചെയ്യാനും ഐഒടിയുടെയും ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെയും സഹായത്തോടെ കഴിയും അതിനാൽ അടിസ്ഥാനപരമായി ഈ മെഷീനുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അവ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യസ്ത ഡാറ്റ അയയ്ക്കുന്നു കൂടാതെ ഈ ഡാറ്റയെല്ലാം വ്യത്യസ്ത നിർദ്ദേശങ്ങളുടെ രൂപത്തിൽ വ്യത്യസ്ത ആപ്പുകൾ വഴി ലഭ്യമാക്കുന്നു അല്ലെങ്കിൽ ഈ വ്യത്യസ്ത ഡാറ്റ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുന്നു ഭാവിയിലെ പരാജയങ്ങൾ പ്രവചിക്കുന്നതിനും എന്തെങ്കിലും ബജറ്റ് പ്രശ്നമുണ്ടെങ്കിൽ മുതലായവയ്ക്കും ഈ ഡാറ്റ കൂടുതൽ പ്രവചനത്തിനായി ഉപയോഗിക്കാം അതിനാൽ അടിസ്ഥാനപരമായി അവരുടെ പക്കലുള്ളത് സെൻസർ സജ്ജീകരിച്ച മെഷീനറികളാണ് സെൻസർ സജ്ജീകരിച്ചതും ആക്യുവേറ്റർ സജ്ജീകരിച്ചതുമായ ഈ സ്മാർട്ട് ഹെവി മെഷിനറികളും ഈ സെൻസർ സജ്ജീകരണ യന്ത്രങ്ങളും ധാരാളം ഡാറ്റ വലിച്ചെറിയുന്നു അവ സാധാരണയായി വയർലെസ് നെറ്റ്വർക്കിലൂടെ അയയ്ക്കുന്നു കൂടാതെ ഒരു AR ആപ്പ് ഓഗ്മെന്റഡ് റിയാലിറ്റി ആപ്പും ഓഗ്മെന്റഡ് റിയാലിറ്റിയും ഉണ്ട് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്താണെന്ന് ഞങ്ങൾ ഇതിനകം മനസ്സിലാക്കിയ മറ്റൊരു പ്രഭാഷണത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ അവർക്ക് ഒരു AR ആപ്പ് ഉണ്ട് അവസാനമായി ഉപയോക്താക്കൾക്ക് മികച്ച രീതിയിൽ ആക്സസ് നേടാനാകും അവർക്ക് ആക്സസ് നേടാനും അവർ ഉപയോഗിക്കുന്ന സിസ്റ്റം കാണാനും കഴിയും ആമസോൺ ഈ കമ്പനിയായ ആമസോൺ എല്ലാവർക്കും പരിചിതമാണെന്ന് ഞാൻ കരുതുന്നു കാരണം ഇത് ലോജിസ്റ്റിക് മേഖലയിൽ വളരെ ജനപ്രിയമാണ് അതിനാൽ ആമസോണിന് ഉണ്ട് എല്ലാ കമ്പനികൾക്കും ഉണ്ട് ആമസോണിനും അവരുടേതായ വിതരണ ശൃംഖലയുണ്ട് അതിനാൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സ്മാർട്ട് ലോജിസ്റ്റിക്സ് മുതലായവ ഐഒടി സംയോജിപ്പിച്ച് ആമസോൺ ചെയ്തു അതിനാൽ അടിസ്ഥാനപരമായി സ്മാർട്ടായതിനാൽ അവർക്ക് അവരുടെ സപ്ലൈ ഫ്ലീറ്റിന്റെ മികച്ച നിയന്ത്രണം കൈവരിക്കാൻ കഴിയും കൂടാതെ ഭാവിയിലെ വിപണി ആവശ്യകതയ്ക്കൊപ്പം അവരുടെ ലോജിസ്റ്റിക്സിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് നേടാനും അവർക്ക് കഴിയും സ്മാർട്ട് വെയർഹൌസിംഗിന്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനപരമായി അവർക്ക് സാങ്കേതിക ഡ്രൈവറുകൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ടെക് ഡ്രൈവറുകളുണ്ട് അവിടെ ഒന്ന് വെയർഹൌസ് ഓട്ടോമേഷനും മനുഷ്യ മെഷീൻ ഇടപെടലുമാണ് അവരുടെ വെയർഹൌസുകളിൽ റോബോട്ട് സജ്ജീകരിച്ചതും നല്ല സംഭരണവും പിക്കപ്പ് സൌകര്യവുമുണ്ട് മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനും വേഗത്തിലുള്ള പ്രവർത്തന സമയം വേഗതയേറിയ പ്രവർത്തന സമയത്തിനൊപ്പം കുറഞ്ഞ പ്രവർത്തന ചെലവ് എന്നിവ നേടുന്നതിനുമാണ് അടിസ്ഥാനപരമായി ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ബോയിംഗ് കമ്പനി ഇത് വ്യോമമേഖലയിലാണ് ബോയിംഗിന് സ്വന്തമായി വിമാനങ്ങളുണ്ട് ബോയിംഗ് വിവിധ മേഖലകളിൽ IoT സംയോജിപ്പിച്ചിരിക്കുന്നു അവരുടെ വ്യത്യസ്ത പ്രക്രിയകളുടെ കാര്യക്ഷമത അവരുടെ യന്ത്രങ്ങളുടെ കാര്യക്ഷമത അവ പ്രവർത്തിക്കുന്ന രീതി ഉൽപ്പാദന പ്രക്രിയ മുതലായവ മെച്ചപ്പെടുത്തുന്നതിന് അതിനാൽ ദശലക്ഷക്കണക്കിന് വിമാനങ്ങളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് ഡിജിറ്റൽ നിർമ്മാണ സൌകര്യം അവർക്കുണ്ട് അതിനാൽ ഇതൊരു മികച്ച പ്രക്രിയയാണ് വ്യത്യസ്ത സെൻസറുകളും ആക്യുവേറ്ററുകളും സംയോജിപ്പിച്ചാണ് ഇത് കൈവരിക്കുന്നത് അടിസ്ഥാനപരമായി നിർമ്മാണ പ്രക്രിയയിലെ കാര്യക്ഷമതയിലെ ഈ മിടുക്ക് കുറഞ്ഞ അസംബ്ലി കാലതാമസം പ്രതികരണ സമയം കുറയ്ക്കൽ നിർമ്മാണ പ്രക്രിയയിലെ പിശകുകൾ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയിൽ മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നു സിസ്കോയും ഫാനുക്കും അടിസ്ഥാനപരമായി ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലാണ് അവർ തങ്ങളുടെ സ്മാർട്ട് ഫാക്ടറി വികസിപ്പിച്ചെടുത്തു അവിടെ വ്യാവസായിക സൌകര്യങ്ങളിലെ പ്രവർത്തനരഹിതമായ സമയം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം അവരുടെ പ്രധാന ടെക് ഡ്രൈവറുകൾ അടിസ്ഥാനപരമായി സെൻസർ സജ്ജീകരിച്ച റോബോട്ടിക് നിർമ്മാണ സൌകര്യവും ക്ലൌഡ് അധിഷ്ഠിത അനലിറ്റിക്സുമാണ് അടിസ്ഥാനപരമായി അവർക്ക് പ്രവചനാത്മക അറ്റകുറ്റപ്പണികളും പരാജയ പ്രവചനവും നടത്താൻ കഴിയും ഒരു പ്രത്യേക യന്ത്രത്തിന് എപ്പോൾ മെയിന്റനൻസ് തുടർ അറ്റകുറ്റപ്പണികൾ എന്നിവ ആവശ്യമായി വരുമെന്ന് അറിയാൻ ശ്രമിക്കുന്ന ഒരു യന്ത്രം പരാജയപ്പെടുന്നതിന് മുമ്പ് തന്നെ അറിയാൻ ശ്രമിക്കുന്നത് പോലെയാണ് പ്രവചനാത്മക പരിപാലനം അർത്ഥമാക്കുന്നത് ഇത് അടിസ്ഥാനപരമായി മൊത്തത്തിലുള്ള പ്രവർത്തനരഹിതമായ സമയം കുറയ്ക്കും കാരണം ഈ ഭാഗങ്ങൾ ഭാവിയിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ആയിരിക്കാം അവ മുൻകൂട്ടി മാറ്റിസ്ഥാപിക്കാം അങ്ങനെ മുഴുവൻ സിസ്റ്റവും ലഭിക്കില്ല മുടങ്ങില്ല ഇത് അടിസ്ഥാനപരമായി സിസ്റ്റത്തിന്റെ പ്രവർത്തനരഹിതമായ സമയം കുറയ്ക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയും നന്നായി മനസ്സിലാക്കിയതും അറിയപ്പെടുന്നതുമായ ഒരു കമ്പനിയാണ് ഹിറ്റാച്ചി ഈ കമ്പനി സംയോജിത IIoT സൊല്യൂഷനുകളും സംയോജിപ്പിക്കുന്നു അവർക്ക് ലുമാഡ ഐഒടി പ്ലാറ്റ്ഫോം ഉണ്ട് ഈ പ്ലാറ്റ്ഫോം അവരുടെ ഐഐഒടി പരിഹാരത്തിലെ പ്രധാന ഡ്രൈവറാണ് അതിനാൽ ഈ പ്ലാറ്റ്ഫോം AI അടിസ്ഥാനമാക്കിയുള്ള അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് നൽകുന്നു ഇത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രത്യേക കാര്യം പ്രവചിക്കുന്നതിനും തുടർന്ന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിനും സഹായിക്കും അവരുടെ IIoT പ്ലാറ്റ്ഫോമിൽ ഉള്ള മറ്റൊരു പ്ലാറ്റ്ഫോം സൊല്യൂഷൻ കോർ ആണ് അതിൽ ഇഷ്ടാനുസൃത സേവനങ്ങൾക്കായി ആവർത്തിക്കാവുന്ന ഘടകങ്ങളുണ്ട് അതിനാൽ പ്രധാനമായും IIoT പരിഹാരത്തിന്റെ സംയോജനത്തിലൂടെ അവർ നേടാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പാദന ത്വരിതപ്പെടുത്തലാണ് അതിനാൽ ഉപയോക്തൃ ആവശ്യങ്ങൾ അനുസരിച്ച് ആപ്ലിക്കേഷൻ ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാൽ ത്വരിതപ്പെടുത്തിയ രീതിയിൽ അവർ വിപണിയിൽ ഉത്പാദിപ്പിക്കുന്നതെന്തും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ജോൺ ഡിയർ അടിസ്ഥാനപരമായി വ്യത്യസ്തമായ യന്ത്രസാമഗ്രികളായ ട്രാക്ടറുകൾ പോലെ ഉപയോഗിക്കാവുന്ന കൃത്യമായ കൃഷിക്കും ഈ ഹെവി മെഷിനറികൾക്കും ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ അവർക്കുണ്ട് അവ പരമ്പരാഗതമായി ജോൺ ഡിയർ ഉത്പാദിപ്പിക്കുന്നു അതിനാൽ ഈ മെഷിനറികളിൽ വ്യത്യസ്ത സെൻസറുകളും ജിപിഎസ് പോലുള്ള മറ്റ് ഉപകരണങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു തത്സമയ ട്രാക്കിംഗിനായി ഈ മെഷീനുകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മനസിലാക്കാൻ ടെലിമാറ്റിക്സ് സൊല്യൂഷനുകൾ അവ വിന്യസിച്ചിരിക്കുന്നു ഈ ടെലിമാറ്റിക്സ് സൊല്യൂഷനുകൾ അറ്റകുറ്റപ്പണികൾ പ്രവചിക്കാൻ സഹായിക്കും ജിയോ ടാഗിംഗിനും വിളവ് പ്രവചനത്തിനും ഉപയോഗിക്കുന്ന ബെയ്ൽ മൊബൈൽ ആപ്പ് ബെയ്ൽ മൊബൈൽ ആപ്ലിക്കേഷനും അവരുടെ പക്കലുണ്ട് ട്രാക്ടറുകളെ മികച്ചതാക്കുന്നതിനുള്ള വ്യത്യസ്തമായ പരിഹാരങ്ങളും അവർക്കുണ്ട് ഉദാഹരണത്തിന് നാവിഗേഷനെ സഹായിക്കുന്നതിന് ട്രാക്ടറുകളിൽ ചിലതരം റിമോട്ട് കൺട്രോൾ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഇക്കാലത്ത് അവർ സ്വയം ഡ്രൈവിംഗ് ട്രാക്ടറുകളുമായി വരാൻ ശ്രമിക്കുന്നു അതിനാൽ സ്വയം ഓടിക്കുന്ന കാറുകളോട് വളരെ സാമ്യമുള്ള ഒന്ന് സ്വയം ഡ്രൈവിംഗ് ട്രാക്ടറുകൾ എയർ കംപ്രസ്സറുകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയായ കെയ്സർ കംപ്രസ്സോറൻ പ്രവർത്തിക്കുന്ന ഒരു സേവനമെന്ന നിലയിൽ ഇത് ഈ എയർ ആണ് അതിനാൽ അവരുടെ എയർ കംപ്രസ്സറുകൾ അടിസ്ഥാനപരമായി സെൻസർ സജ്ജീകരിച്ചിരിക്കുന്നു ഇക്കാലത്ത് ഈ എയർ കംപ്രസ്സറുകളിൽ ഭൂരിഭാഗവും സെൻസർ സജ്ജീകരിച്ചിരിക്കുന്നു ഇത് ഭാവിയിലെ പരാജയങ്ങളുടെ പ്രവചനത്തിലാണ് ഇത് വീണ്ടും അടിസ്ഥാനപരമായി പ്രവർത്തനരഹിതമായ സമയം കുറയ്ക്കുന്നതിനും ഈ പ്രത്യേക മാർക്കറ്റ് സെഗ്മെന്റിൽ സാധാരണയായി ഉയർന്ന ചില മെയിന്റനൻസ് ചിലവ് ലാഭിക്കുന്നതിനും സഹായിക്കും അതിനാൽ എയർ ആസ് എ സർവീസ് എന്നത് അടിസ്ഥാനപരമായി ഉപയോക്താക്കൾക്ക് ഈ കമ്പനികളുടെ സ്വന്തം കംപ്രസ്സറുകളിൽ നിന്ന് ഒരു ക്യുബിക് മീറ്റർ വായുവിന് പണമടയ്ക്കാൻ കഴിയും അതിനാൽ അവർ എയർ എ സർവീസ് നൽകുന്ന ഒരു സൌകര്യമാണിത് ഉപയോഗത്തിന്റെ യൂണിറ്റുകളെ അടിസ്ഥാനമാക്കി കമ്പനി വരുമാനം നേടുന്നു RTI റിയൽ ടൈം ഇന്നൊവേഷൻസ് ആണ് സ്മാർട്ട് എനർജി മാനേജ്മെന്റ് സ്പെയ്സിലേക്കുള്ള മറ്റൊരു കമ്പനി അവർക്ക് ഒരു പരിഹാരമുണ്ട് അത് Connext DDS ആണ് അതിന് വ്യത്യസ്ത ആപ്പുകളും ഉപകരണങ്ങളും ഉണ്ട് ഈ ആപ്പുകളും വ്യത്യസ്ത ഉപകരണങ്ങളും വ്യത്യസ്ത ഉപകരണങ്ങളിൽ നിന്ന് ഈ വ്യത്യസ്ത വിവരങ്ങളെല്ലാം അവർ ശേഖരിക്കുന്നു ഇതിനെ അടിസ്ഥാനമാക്കി അരികിലോ ക്ലൌഡിലോ വ്യത്യസ്ത വിശകലനങ്ങൾ നടത്തുന്നു ഈ ഡാറ്റയും ഡാറ്റയുടെ വിശകലനവും അടിസ്ഥാനപരമായി ഉപയോക്താക്കളെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യാനും സഹായിക്കുന്നു ഖനനമേഖലയിൽ കനത്ത യന്ത്രസാമഗ്രികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് കൊമത്സു വ്യത്യസ്ത സെൻസറുകളും ആക്യുവേറ്ററുകളും അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അവരുടെ ഉപകരണങ്ങളും മികച്ചതാണ് കൂടാതെ വ്യത്യസ്ത ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായി അവരുടെ വ്യത്യസ്ത യന്ത്രങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഡാറ്റയും അവർ ഉപയോഗിക്കുന്നു പ്രവചനാത്മക മെഷീൻ പ്രകടന വിശകലനത്തിലൂടെ ഉയർന്ന ലാഭത്തിലേക്ക് നയിച്ചേക്കാവുന്ന ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ അതിനാൽ അവർ പരിസ്ഥിതിയുടെ പ്രശ്നത്തെയും അഭിസംബോധന ചെയ്യുന്നു ഇത് അടിസ്ഥാനപരമായി പൊടിയും ജ്വലനവും കുറയ്ക്കുന്നതിന് IoT പരിഹാരങ്ങളുടെ ഉപയോഗം പ്രവർത്തനങ്ങളിലെ ദൃശ്യപരത മെച്ചപ്പെടുത്തുക ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൃശ്യപരത വർദ്ധിപ്പിക്കുക അവരുടെ യന്ത്രസാമഗ്രികൾ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അവ അടിസ്ഥാനപരമായി റോബോട്ടിക് ഇന്റർനെറ്റ് സജ്ജീകരിച്ച യന്ത്രങ്ങളാണ് അവർക്ക് സ്വയം ഓടിക്കുന്ന ട്രക്കുകൾ ഉണ്ട് അവിടെ വ്യത്യസ്ത വയർലെസ് സെൻസറുകൾ ഉണ്ട് അവയിൽ വിന്യസിച്ചിരിക്കുന്നു ഖനന മേഖലയിലെ മറ്റൊരു കമ്പനി റിയോ ടിന്റോയാണ് ദൃശ്യവൽക്കരണവും സഹകരണ ഉപകരണങ്ങളും ഉള്ള കേന്ദ്ര നിയന്ത്രണ സൌകര്യമുണ്ട് അവർക്ക് തത്സമയ നിരീക്ഷണത്തിനും വിതരണ ശൃംഖലയുടെ ഒപ്റ്റിമൈസേഷനുമുള്ള കഴിവുണ്ട് അതിനാൽ അവർക്ക് വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട് ഓട്ടോണമസ് ചരക്ക് സംവിധാനം എഎച്ച്എസ് ഇത് സ്വയംഭരണ ട്രക്കുകളുടെ ഒരു കൂട്ടമാണ് റിമോട്ട് പ്രവർത്തനങ്ങളിൽ പ്രവർത്തനക്ഷമമാക്കുന്ന ഓട്ടോമേറ്റഡ് ഡ്രില്ലിംഗ് സിസ്റ്റം എഡിഎസ് ഖനന സ്ഥലത്ത് ഡ്രെയിനിംഗ് ഡ്രെയിലിംഗ് നിയന്ത്രിക്കുന്നു മറ്റൊരു കമ്പനി അത് സ്റ്റാൻലി ബ്ലാക്ക് ആൻഡ് ഡെക്കർ കമ്പനിയാണ് ഇത് സ്മാർട്ട് നിർമ്മാണ എഞ്ചിനീയറിംഗ് മേഖലയിലാണ് അതിനാൽ ഇവിടെയും അവർക്ക് IoT സംയോജനത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായ പരിഹാരങ്ങളുണ്ട് നവീകരണ മേഖലയിൽ അടിസ്ഥാനപരമായി ഉൽപ്പന്ന അസംബ്ലി ഓട്ടോമോട്ടീവ് കമ്പ്യൂട്ടർ ഗൃഹോപകരണങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സോളാർ പാനലുകൾ തുടങ്ങിയവയ്ക്കുള്ള പരിഹാരങ്ങളുണ്ട് പിന്നെ പൈപ്പ്ലൈൻ നിരീക്ഷണത്തിന് ഉയർന്ന നിലവാരമുള്ള വിശ്വസനീയമായ പൈപ്പ്ലൈൻ എണ്ണ വാതക വ്യവസായം നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണികളിലും ആവശ്യമായ ഉപകരണങ്ങൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ പരിഹാരങ്ങൾ അവർ ക്രമേണ ഭാരം കുറഞ്ഞ വാഹനങ്ങളുടെ ഇടത്തിലേക്ക് കടന്നുവരുന്നു അവർക്ക് ഇക്കോ സ്മാർട്ട് നൂതനമായ പരിഹാരമുണ്ട് ഇത് അടിസ്ഥാനപരമായി ഊർജ്ജ ആവശ്യകതയും മൊത്തത്തിലുള്ള കാർബൺ കാൽപ്പാടും കുറയ്ക്കാൻ സഹായിക്കുന്നു ഷെൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് ഇത് എണ്ണ വാതക മേഖലയിലാണ് എണ്ണ വാതക വിതരണം അവർ ഇപ്പോൾ സ്വയം മികച്ച പരിഹാരങ്ങളായി മാറിയിരിക്കുന്നു എണ്ണയുടെയും വാതകത്തിന്റെയും വിതരണത്തിന് അവർക്ക് മികച്ച പരിഹാരങ്ങളുണ്ട് അവർക്ക് ഡിജിറ്റൽ ഓയിൽഫീൽഡ് ഉണ്ട് അവിടെ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് സജ്ജീകരിച്ചിരിക്കുന്ന വ്യത്യസ്ത സെൻസറുകൾ ഉണ്ട് അവ അടിസ്ഥാനപരമായി എണ്ണയിലും വാതകത്തിലും ഉപയോഗിക്കുന്ന ഈ വ്യത്യസ്ത യന്ത്രങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നു അതിനാൽ അവയ്ക്ക് മികച്ച വാൽവുകളും മികച്ച സ്മാർട്ട് പമ്പുകളും മറ്റും ഉണ്ട് അവ വ്യത്യസ്ത ഫീൽഡുകളിൽ നിന്ന് എണ്ണ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നു അതിൽ ഈ വ്യത്യസ്ത യന്ത്രങ്ങൾ വിന്യസിച്ചിരിക്കുന്നു നോർത്ത് സ്റ്റാർ ബ്ലൂസ്കോപ്പ് ഈ കമ്പനി വ്യാവസായിക സുരക്ഷാ മേഖലയിലാണ് വ്യവസായവുമായി ബന്ധപ്പെട്ട ജോലി സംബന്ധമായ മരണങ്ങൾ വളരെ സാധാരണമാണ് അത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ വ്യവസായത്തിലെ വ്യത്യസ്ത അപകടങ്ങൾ കാരണം ഓരോ 15 സെക്കൻഡിലും ഒരു മരണം സംഭവിക്കുന്ന ചില സ്ഥിതിവിവരക്കണക്കുകൾ ഇതാ അതിനാൽ വ്യാവസായിക സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് വ്യാവസായിക തൊഴിലാളികൾക്ക് ഉപയോഗിക്കാവുന്ന സ്മാർട്ട് ധരിക്കാവുന്ന സുരക്ഷാ ഗാഡ്ജെറ്റുകൾ കൊണ്ടുവരാൻ ഈ പ്രത്യേക കമ്പനി പ്രവർത്തിക്കുന്നു Maersk അടിസ്ഥാനപരമായി സ്മാർട്ട് ലോജിസ്റ്റിക്സ് ഡൊമെയ്നിലെ ഒരു കമ്പനിയാണ് കണ്ടെയ്നറുകൾക്കുള്ള റൂട്ടും ഇന്ധന ഉപഭോഗവും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് അനലിറ്റിക്സ് ഉപയോഗിച്ച IoT പ്രവർത്തനക്ഷമമാക്കിയ വ്യത്യസ്ത പരിഹാരങ്ങൾ ഇതിന് ഉണ്ട് അതിനാൽ ഈ വ്യത്യസ്ത കണ്ടെയ്നറുകളുടെ അവസ്ഥ അനുസരിച്ച് അവർക്ക് വിദൂര നിയന്ത്രണവും കണ്ടെയ്നറുകളുടെ പരിപാലനവും ഉണ്ട് ഈ കണ്ടെയ്നറുകൾ അടിസ്ഥാനപരമായി മികച്ചതാണ് അവ വിദൂരമായി നിരീക്ഷിക്കാൻ കഴിയും അതിനാൽ അവർക്ക് ഡ്രൈ കാർഗോ റഫ്രിജറേറ്റഡ് കാർഗോ അല്ലെങ്കിൽ പ്രത്യേക ചരക്ക് ഉണ്ട് കൂടാതെ ഈ വ്യത്യസ്ത തരം ചരക്കുകൾ ഓരോന്നും നിരീക്ഷിക്കാനും അവയിൽ വിന്യസിച്ചിരിക്കുന്ന ഈ സ്മാർട്ട് ഉപകരണങ്ങളുടെ ഉപയോഗത്തിലൂടെ വിദൂരമായി പരിപാലിക്കാനും കഴിയും അതിനാൽ അവർക്ക് മികച്ച ലോജിസ്റ്റിക്സ് പരിഹാരങ്ങളുണ്ട് മാഗ്ന സ്റ്റെയർ സ്മാർട്ട് ഫാക്ടറി ഡൊമെയ്നിലാണ് അവിടെ അവർക്ക് മുഴുവൻ പ്രൊഡക്ഷൻ ടൈംലൈനിന്റെയും ഡിജിറ്റൽ മാപ്പിംഗ് ഉണ്ട് അതിനാൽ അവർക്ക് വെഹിക്കിൾ എഞ്ചിനീയറിംഗ് സൊല്യൂഷനുകൾ പ്രൊഡക്ട് പ്രൊഡക്ഷൻ ലൈൻ നടപ്പിലാക്കൽ സൊല്യൂഷനുകൾ കൂടാതെ ഇന്റലിജന്റ് പ്രൊഡക്ഷൻ സിസ്റ്റങ്ങൾ എന്നിവ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് കൃത്യത സ്കേലബിളിറ്റി വിശ്വാസ്യത എന്നിവ കൈവരിക്കുന്നതിനും ഡൈനാമിക് ആവശ്യകതകൾ മാറ്റം എന്നിവയിൽ മാറ്റം വരുത്തുന്നതിനും സഹായിക്കും ചലനാത്മക ആവശ്യകതകൾ കൂടാതെ അവർക്ക് ഫാക്ടറിയുടെ പൂർണ്ണമായ സ്വയംഭരണാധികാരവും ഉണ്ട് അവർക്ക് മനുഷ്യരുടെയും യന്ത്രങ്ങളുടെയും വിഭവങ്ങളുടെയും ഒരു ശൃംഖലയുണ്ട് അവർക്ക് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഇതര ഊർജ്ജ സംഭരണ സംവിധാനം ലൈറ്റ്വെയ്റ്റ് ഡിസൈൻ ജോയിനിംഗ് സിസ്റ്റം തുടങ്ങിയ പരിഹാരങ്ങളുണ്ട് ഗെഹ്റിംഗ് ബന്ധിപ്പിച്ച നിർമ്മാണ മേഖലയിലാണ് ഇവിടെ അവർക്ക് വ്യത്യസ്ത നിർമ്മാണ സംവിധാനങ്ങളുണ്ട് അവ ഇന്റർനെറ്റ് സജ്ജീകരിച്ചിരിക്കുന്നു ഇവ സെൻസർ സജ്ജീകരിച്ചിരിക്കുന്നു ഈ സംവിധാനങ്ങൾ അടിസ്ഥാനപരമായി തത്സമയം അവർ ധാരാളം ഡാറ്റ എറിയുന്നു അവ ധാരാളം ഡാറ്റ സ്ട്രീം ചെയ്യുന്നു അതിനാൽ അവർക്ക് തത്സമയം ഉപഭോക്താക്കൾക്ക് നഷ്ടമായ പ്രവർത്തനങ്ങളുടെ മികച്ച പ്രൊജക്ഷൻ ഉണ്ട് ഇത് അടിസ്ഥാനപരമായി ഈ വ്യത്യസ്ത സിസ്റ്റങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തത്സമയം അറിയാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും കൃത്യത മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു വ്യത്യസ്ത ഭാഗങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും മെഷീൻ ഭാഗങ്ങൾ വ്യത്യസ്ത മറ്റ് സാധനങ്ങൾ കണ്ടെത്തുന്നതിനും ബോഷ് വളരെ ബുദ്ധിപരമായ പരിഹാരം ഉണ്ട് അതിനാൽ ഈ അടിസ്ഥാന പരിഹാരങ്ങളും സെൻസർ സജ്ജീകരിച്ചിരിക്കുന്നു അവ ഈ ഉപകരണങ്ങളാകാം ഭാഗങ്ങൾ ട്രാക്ക് ചെയ്യാനും കണ്ടെത്താനും കഴിയും തിരയൽ സമയം കുറയുന്നു തെറ്റായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള അപകടസാധ്യതയുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി അവരുടെ പരിഹാരങ്ങൾ അസറ്റ് മാനേജ്മെന്റ് വർക്ക് മാനേജ്മെന്റ് നിർമ്മാണ പ്രക്രിയകൾ മെച്ചപ്പെടുത്തൽ എന്നിവയിൽ സഹായിക്കും കാരണം എല്ലാം സംയോജിതമാണ് അതിന്റെ സംയോജിത നിർമ്മാണം അവർക്ക് ഒരു സേവന പരിഹാരമായി ഒരു ടൂളുമുണ്ട് അത് ഒരു പുതിയ ബിസിനസ്സ് മോഡലാണ് അത് ഉൽപ്പാദനക്ഷമതയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പന്ന ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും ബന്ധിപ്പിച്ച റോബോട്ടിക്സ് ഡൊമെയ്നിലുള്ള ഒരു കമ്പനിയാണ് KUKA അതിനാൽ അവർക്ക് സംവിധാനങ്ങളുണ്ട് അവ കണക്റ്റുചെയ്ത റോബോട്ടുകളാണ് അത് നിർമ്മാണ പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കാം അതിനാൽ നിർമ്മാണത്തിന് എടുക്കുന്ന സമയം മെച്ചപ്പെടുത്തുന്നു അതിനാൽ കണക്റ്റുചെയ്ത റോബോട്ടിക്സിന്റെ ഉപയോഗത്തിലൂടെ അവർക്ക് അതിവേഗ നിർമ്മാണ പ്രക്രിയകളുണ്ട് ഇതാണ് കുക്ക ആർക്കിടെക്ചർ അവയ്ക്ക് ഏറ്റവും താഴെയായി ഈ വ്യത്യസ്ത സെൻസറുകൾ ഉണ്ട് തുടർന്ന് മിഡിൽവെയറും ഫോഗ് നോഡും ഉണ്ട് അടിസ്ഥാനപരമായി ഫോഗ് നോഡ് ആണ് അത് ഡാറ്റ എടുത്ത് പ്രാദേശികമായി ഉറവിടത്തോട് അടുത്ത് പ്രോസസ്സ് ചെയ്യും ഉറവിടത്തിന് അടുത്ത് അർത്ഥമാക്കുന്നത് സെൻസറുകൾക്ക് സമീപമാണ് മറ്റെല്ലാ ഡാറ്റയും ക്ലൌഡിൽ വ്യത്യസ്തമായ അനലിറ്റിക്സും മറ്റും നടത്തുന്നതിനായി ക്ലൌഡിലേക്ക് അയയ്ക്കാൻ പോകുന്നു അതിനാൽ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ എ സർവീസ് സോഫ്റ്റ്വെയർ എ സർവീസ് സൊല്യൂഷനുകൾ എന്നിവയുടെ സംയോജനമുണ്ട് ഇതോടെ ഈ പ്രഭാഷണം അവസാനിക്കുന്നു അതിനാൽ ഉപയോഗിക്കുന്ന ഈ റഫറൻസുകളിൽ ചിലത് ഇവയാണ് അതിനാൽ ഞങ്ങൾ ചെയ്തത് വ്യവസായങ്ങളിൽ ഉള്ള വ്യത്യസ്തവും വ്യത്യസ്തവുമായ പരിഹാരങ്ങളുടെ ഒരു ശേഖരത്തിലൂടെ കടന്നുപോയി എന്നതാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇത് വ്യത്യസ്ത വ്യവസായങ്ങളിൽ ഉള്ള ഈ വ്യത്യസ്ത പരിഹാരങ്ങളുടെ ഒരു ഹൈലൈറ്റ് മാത്രമായിരുന്നു ഇവയിൽ പലതും പ്രവർത്തനത്തിലാണ് വ്യവസായങ്ങൾ രണ്ട് ഇൻഡസ്ട്രി 4 0 യെ ക്രമേണ പരിവർത്തനം ചെയ്യുന്നു ഇവ പ്രവർത്തനങ്ങളിലാണ് അതിനാൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ കമ്പനി വെബ്സൈറ്റുകൾ സന്ദർശിക്കാൻ മടിക്കേണ്ടതില്ല അവരുടെ സിസ്റ്റങ്ങളെ കുറിച്ചും അവയുടെ മികച്ച സംവിധാനങ്ങളെ കുറിച്ചും മറ്റും കൂടുതലറിയാൻ അതിനാൽ ഇവയ്ക്കൊപ്പം വ്യത്യസ്തമായ അവലംബങ്ങൾ ഉണ്ട് ഇതോടെ ഞങ്ങൾ അവസാനിക്കുന്നു